ഇനി നമുക്ക് ഈ ആഴ്ചയുടെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം ഞാൻ പഠിപ്പിച്ച സാങ്കേതിക വിശദാംശങ്ങളിലേക്ക് പോകുന്നതിനുമുമ്പ് ഞാൻ API കീ API സീക്രട്ട് ആക്സസ് ടോക്കൺ എന്നിവയെക്കുറിച്ച് ചിലത് ഹൈലൈറ്റ് ചെയ്യാം ദയവായി ഈ വിശദാംശങ്ങൾ മറ്റാരോടും പങ്കുവയ്ക്കരുത് ഇത് പങ്കിടുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു കാരണം ആരെങ്കിലും API കീ സീക്രട്ട് അല്ലെങ്കിൽ ആക്സസ് ടോക്കൺ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ ഡാറ്റ ശേഖരിക്കാനാകും നിങ്ങളാണ് ഡാറ്റ ശേഖരിക്കുന്നത് അതിനാൽ അവ പോർട്ടലുകളിൽ പങ്കിടാതിരിക്കാനും മറ്റാരുമായും പങ്കിടാതിരിക്കാനും ശ്രദ്ധിക്കുക കൂടാതെ ഈ ആഴ്ച നിങ്ങൾക്ക് ട്വിറ്റർ API യെക്കുറിച്ച് ട്യൂട്ടോറിയൽ ലഭിക്കും വീണ്ടും നമ്മൾ ഫേസ്ബുക്കിൽ ചെയ്ത അതേ പ്രക്രിയയിലേക്ക് പോകാം അതിനാൽ ദയവായി ശ്രദ്ധിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ട്യൂട്ടോറിയലിലൂടെ കടന്നുപോകുക ട്യൂട്ടോറിയലിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നടപ്പിലാക്കാനും മനസ്സിലാക്കാനും കഴിയുമെന്ന് ഉറപ്പുവരുത്തുക ട്രസ്റ്റ്ക്രെഡിബിലിറ്റി എന്നിവയെക്കുറിച്ച് ഈ കോഴ്സിന്റെ പലഭാഗത്തും ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള സ്ലൈഡ് ഇതാ കാണുക അതിനാൽ ഞാനിപ്പോൾ അൽപ്പം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് പ്രൈവസിയിലാണ് അതിനാൽ പ്രൈവസിയെക്കുറിച്ചുള്ള ഒന്നുരണ്ട് ലെക്ചർ കൂടി നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെയാണ് പ്രൈവസിയെ നിർവചിക്കുന്നത് പ്രൈവസി എന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രൈവസിയും എന്റെ പ്രൈവസിയും വ്യത്യസ്തമായിരിക്കും നിങ്ങൾ ക്ലാസ്സിൽ കൂട്ടുകാരുമൊത്ത് ആയിരിക്കുമ്പോളുള്ള പ്രൈവസിയും നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴുള്ള പ്രൈവസിയും നിങ്ങൾ സിനിമ കാണുമ്പോഴുള്ള പ്രൈവസിയും കൂട്ടുകാരുമൊത്ത് പുറത്തുപോവുമ്പോഴുള്ള പ്രൈവസിയും എല്ലാം തികച്ചും വ്യത്യസ്തമായിരിക്കും ഓരോ സന്ദർഭത്തിനനുസരിച്ച് പ്രൈവസി എന്നത് വ്യത്യസ്തമാണ് ഗവേഷണ മേഖലയിൽ അലൻ വെസ്റ്റിൻ പ്രൊഫസർ അലൻ വെസ്റ്റിൻ യഥാർത്ഥത്തിൽ പ്രൈവസിയുടെ അർത്ഥം അറിയാൻ ഇതേ വഴിയാണ് ഉപയോഗിച്ചത് വ്യത്യസ്തതരം ആളുകളുടെ വ്യത്യസ്തങ്ങളായ പ്രൈവസി മുൻഗണനകളെക്കുറിച്ച് അദ്ദേഹം 30 വർഷത്തിലേറെയായി പഠിക്കുന്നു കൂടാതെ പൌരന്മാരുടെ സ്വകാര്യതാ ധാരണകൾ മനസ്സിലാക്കുന്ന ഈ മേഖലയിൽ അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ആളുമാണ് അദ്ദേഹം ചെയ്തത് എന്തെന്നാൽ നിർദ്ദിഷ്ട വിഷയങ്ങളിൽ ഏകദേശം 30 വർഷങ്ങളോളംഎല്ലാ വർഷവും അദ്ദേഹം ഒരേ ചോദ്യം ചോദിച്ചു കൂടാതെ അദ്ദേഹം യുഎസ് പൌരന്മാരെ 3 വിഭാഗങ്ങളായി തരംതിരിച്ചു മൌലികവാദികൾ പ്രായോഗികവാദികൾ പരിഗണനയില്ലാത്തവർ മൌലികവാദികൾ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും വ്യക്തിപരമായ വിശദാംശങ്ങൾ നല്കാൻ കൂട്ടാക്കാത്ത ഒരു വിഭാഗം ആളുകളെയാണ് മൌലികവാദികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ചിത്രം എടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ പോലും ഒരു ചിത്രത്തിലും നിൽക്കാത്ത ആളുകളാണവർ ഏകദേശം 25 ശതമാനം യുഎസ് പൌരന്മാരും മൌലികവാദികളാണ് സാഹചര്യത്തെ ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാണ് പ്രായോഗികവാദികൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ബാർ ചോക്ലേറ്റ് നൽകുന്നുവെങ്കിൽ അവർ എനിക്ക് വ്യക്തിപരമായ വിശദാംശങ്ങളുള്ള എന്തെങ്കിലും തിരികെ നൽകും ഞാൻ അവർക്ക് കൂടുതൽ മൂല്യമുള്ള എന്തെങ്കിലും നൽകുന്നുവെങ്കിൽ അതിലും വലിയ എന്തെങ്കിലും പങ്കിടുവാനും അവർക്ക് സാധിക്കും അതിനാൽ ആമസോൺ വെബ്സൈറ്റിൽ ഞാൻ ഒരു ഉൽപ്പന്നം വാങ്ങാൻ പോകുന്ന സാഹചര്യത്തെ ആശ്രയിച്ച് ഐസിഐസിഐ വെബ്സൈറ്റിൽ ഞാൻ യഥാർത്ഥത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ പോകുമ്പോൾ ഉള്ള എന്റെ സ്വകാര്യത പ്രതീക്ഷകൾ വളരെ വ്യത്യസ്തമാണ് അതിനാൽ ഈ വിഭാഗത്തിലെ പ്രായോഗികവാദികളെ പിന്തുടരുന്ന ഉപയോക്താക്കൾ അവരുടെ സാഹചര്യത്തെ ആശ്രയിച്ച് അവർ പോകുന്ന പ്രവർത്തനത്തെ ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു അൺകൺസേൺഡ് ഒരു ബാർ ചോക്ലേറ്റിനായി പാസ്വേഡുകൾ പോലും നൽകുന്ന ഒരു കൂട്ടം ആളുകൾ ചുരുങ്ങിയ വരുമാനത്തിനായി വ്യക്തിഗതമായ തിരിച്ചറിയൽ വിവരങ്ങൾ നല്കാൻ പോലും ഇത്തരക്കാർക്ക് മടിയില്ല അതിനാൽ അലൻ വെസ്റ്റിൻ തിരിച്ചറിഞ്ഞ പ്രൈവസി ധാരണകളുടെ മൂന്ന്തരം വിഭാഗങ്ങൾ ഫണ്ടമെന്റലിസ്റ്റ് പ്രാഗ്മാറ്റിസ്റ്റ് അൺകൺസേൺഡ് എന്നിവയാണ് അൺകൺസേൺഡ് പ്രൈവ സിയെ കാര്യമായി പരിഗണിക്കാത്ത ആളുകളാണ് പ്രാഗ്മാറ്റിസ്റ്റ് സാഹചര്യത്തെ ആശ്രയിച്ച് തീരുമാനമെടുക്കുന്നവരാണ് മൌലികവാദികൾ വളരെ ഉറച്ച ശക്തമായ പ്രൈവസി പ്രതീക്ഷകൾ ഉള്ളവരാണ് നിങ്ങളിൽ ചിലർ ഈ കാർട്ടൂൺ പണ്ട് കണ്ടിട്ടുണ്ടാകാം ഈ കാർട്ടൂൺ തൊണ്ണൂറുകളുടെ മധ്യത്തിൽ പ്രസിദ്ധീകരിച്ചതാണ് ഈ കാർട്ടൂണിൽ ഉള്ള ഇൻറർനെറ്റിൽ ആർക്കും നിങ്ങളെ അറിയില്ല എന്നാൽ നിങ്ങൾ ഒരു നായ ആണെന്ന് ആർക്കും അറിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചു എന്നാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാൻഡ് നായഭക്ഷണത്തിന്റെ പരസ്യങ്ങൾ വ്യക്തിഗതമായി ഇൻറർനെറ്റിൽ നിന്നും കിട്ടുന്ന ഒരു സമയം വന്നു അതിനാൽ നിങ്ങളുടെ പെരുമാറ്റം നോക്കിയാൽ നിങ്ങൾ ഇന്റർനെറ്റിൽ ആരാണെന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് ഇത് അടിസ്ഥാനപരമായി കാണിക്കുന്നു ഇതും തൊണ്ണൂറുകളുടെ മധ്യത്തിലായിരുന്നു അതിനാൽ അവർ മിക്കവാറും തൊണ്ണൂറുകളുടെ മധ്യത്തിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിലും വെബ് സേവനങ്ങളിൽ ട്രാഫിക് സിഗ്നലുകൾ ട്രാഫിക് നെറ്റ്വർക്ക് ഡാറ്റ എന്നിവയിൽ നിന്നായിരുന്നു വിവരങ്ങൾ ശേഖരിച്ചിരുന്നത് എന്നാലിന്ന് സേവനങ്ങളായ ഫേസ്ബുക്ക് ട്വിറ്റർ എന്നിവയിൽ നിന്നെല്ലാം പ്രത്യേകിച്ച് ഗൂഗിളിൽ നിന്നുപോലും നിങ്ങളുടെ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയും നിങ്ങളുടെ ബ്രൌസർ സ്വഭാവം അനുസരിച്ച നിങ്ങളുടെ രസകരമായ പ്രൊഫൈലുകൾ ഉണ്ടാക്കുവാനും അത് പലപ്പോഴും നിങ്ങൾക്കെതിരെ ദുരുപയോഗം ചെയ്യുവാനും സാധിക്കും അതിനാൽ ഇത് മനസ്സിൽ വച്ചുകൊണ്ട് അലൻ വെസ്റ്റണിന്റെ പഠനങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകപ്രൈവസി നിർവചങ്ങൾ ഓർത്തുവയ്ക്കുക ഇന്ത്യയ്ക്കുള്ളിൽ തന്നെയുള്ള പ്രൈവസിയെക്കുറിച്ചുള്ള ധാരണ നിലനിർത്തുക ഇന്ത്യയിലെ സ്വകാര്യതാ ധാരണകൾ മനസ്സിലാക്കാൻ ചില വിവരങ്ങൾ ശേഖരിച്ചു ഇന്ത്യക്കാർ പ്രൈവസിയെ എങ്ങനെയാണ് കാണുന്നത് ആളുകൾക്ക് ഏതു തരത്തിലുള്ള പ്രൈവസി ധാരണകളാണുള്ളത് ഇത് വ്യത്യസ്തമാണ് ഒരു നീണ്ട പഠനമുണ്ട് ഞാൻ ഇത് ചുരുക്കിപ്പറയാൻ പോകുന്നുഓൺലൈൻ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ചില രസകരമായ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു നമ്മൾ ശേഖരിച്ച ഓൺലൈൻ സോഷ്യൽ മീഡിയ ഡാറ്റ നോക്കാനാണ് നമ്മൾ പഠനം നടത്തുന്നത്അതിനാൽ 20 അഭിമുഖങ്ങൾ 4 ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ എവിടെയാണ് നടന്നത് എന്നാൽ ഏറ്റവും രസകരമായ ഭാഗം 10427 സർവേ ഡാറ്റ ശേഖരിച്ചു എന്നതാണ് ഈ ഡാറ്റ ലോകമെമ്പാടുമുള്ള പ്രൈവസി പഠനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ഡാറ്റയാണ് 83 ചോദ്യങ്ങളുള്ള 10427 മറുപടികളുള്ള ഡേറ്റ ഒരു സംസ്ഥാനം ഒഴികെ രാജ്യത്തുടനീളം നിന്ന് ശേഖരിച്ചതാണ് ലഭ്യമായ ഡേറ്റ രാജ്യത്തെ ഒട്ടനവധി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഇതാണ് വിതരണം ഓരോ സംസ്ഥാനത്തുനിന്നും ശേഖരിച്ച ഡേറ്റയുടെ ശതമാനം ആണ് സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന സംഖ്യകൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ 8 57 ശതമാനം ഉണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത് അതായത് ആകെ ശേഖരിച്ച 10427 ഡേറ്റയുടെ 8 57 ശതമാനം തമിഴ്നാട്ടിൽ നിന്നാണ് അതിനാൽ തന്നിരിക്കുന്ന ഡേറ്റ മുഴുവൻ രാജ്യത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് ഡേറ്റ ശേഖരിച്ചത് ഓൺലൈനിൽ മാത്രം ആയിരുന്നില്ല അത് ഇംഗ്ലീഷിലായിരുന്നു ചെയ്തത് പക്ഷെ ഇത് യഥാർത്ഥത്തിൽ പല വഴികളിലൂടെയാണ് നടത്തിയത് മാളിന് പുറത്തു നിന്നും ഹോട്ടലുകൾക്ക് പുറമെ നിന്നും റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നുമൊക്കെയാണ് ഡേറ്റ ശേഖരിച്ചത് ഒരു ചെറിയ അനുപാതം യഥാർത്ഥത്തിൽ ഓൺലൈനിൽ ശേഖരിച്ചതാകാംനിങ്ങൾക്ക് URL ൽ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ സ്ലൈഡിന്റെ അവസാനം നിങ്ങൾക്ക് ഡേറ്റ നോക്കാവുന്നതാണ് നിങ്ങൾക്കവ ഡൌൺലോഡ് ചെയ്യുവാനും ഉപയോഗിക്കുവാനും സാധിക്കുന്നതാണ് പഠനത്തിൽ പങ്കെടുത്ത ആളുകളുടെ ജനസംഖ്യാശാസ്ത്രം നോക്കുകയാണെങ്കിൽ 18 വയസിൽ താഴെയുള്ളവർ 1 5 ശതമാനവും 18 നും 24 നും ഇടയിൽ പ്രായമുള്ളവർ 20 ശതമാനവും ആണ് കൂടുതൽ ആളുകൾ വരുന്ന വിഭാഗം 18 മുതൽ 39 വയസുവരെയാണ് പഠനത്തിൽ പങ്കെടുത്ത ആളുകളെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് ജൻഡർ നോക്കുകയാണെങ്കിൽ പഠനത്തിൽ പങ്കെടുത്ത 67 ശതമാനം പുരുഷന്മാരും 32 ശതമാനം സ്ത്രീകളും ആയിരുന്നു അതിനാൽ പഠന ത്തിന്റെ റിസൾട്ട് എന്താണെന്നും ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നും മനസിലാ ക്കുന്നതിനുവേണ്ടി ഞാനീ വിശദാംശങ്ങൾ ഒന്നുകൂടി പങ്കുവെയ്ക്കുന്നു ഇവിടെ ഞാൻ യഥാർത്ഥത്തിൽ കടന്നുപോയ മൂന്നു ചോദ്യങ്ങളാണ് ഓർക്കുക ഈ ഡേറ്റ ശേഖരിച്ച സോഷ്യൽ മീഡിയയിൽ നിന്നും കണ്ടെത്തിയ രസകരമായ ചില നിരീക്ഷണങ്ങൾ പുറത്തുകൊണ്ടുവരുന്നതിനാണ് ഞാനിത് ഉപയോഗിച്ചത് ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളിലെയും നിങ്ങളുടെ ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളിലെയും നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളുടെ സ്വകാര്യതയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു നിങ്ങൾക്ക് നിലനിർത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ Facebook ൽ നിലനിർത്താം അതിനാൽ ഇപ്പോൾ മുഴുവൻ ചോദ്യാവലിയും മുഴുവൻ പ്രതികരണങ്ങളും ചുറ്റുമുള്ള സാങ്കേതിക റിപ്പോർട്ടും പൊതുവായി ലഭ്യമാണ് സ്ലൈഡിലെ Q 42 അർത്ഥമാക്കുന്നത് ഈ സർവേയുടെ 42 ആം ചോദ്യമാണ് അതിനാൽ 6855 എന്നതിനർത്ഥം 10427 പ്രതികരിച്ചവരിൽ നിന്നുള്ള ധാരാളം ആളുകൾ ഈ പ്രത്യേക ചോദ്യത്തിന് ഉത്തരം നൽകി എന്നാണ് എന്റെ പ്രൈവസി ക്രമീകരണങ്ങൾ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ അത് ഒരു ആശങ്കയല്ല എന്ന രീതിയിലാണ് പ്രതികരണങ്ങൾ എന്റെ ഡേറ്റ സുരക്ഷിതമാണ് എന്നിരുന്നാലും ഞാൻ എന്റെ പ്രൈവസി ക്രമീകരണങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ എന്റെ ഡാറ്റയുടെ പ്രൈവസിയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴും എന്റെ വ്യക്തിപരമായ വിവരങ്ങൾ പങ്കിടുന്നു ഇത് ഒരു ആശങ്കയാണ് അതിനാൽ ഞാൻ എന്റെ പ്രൈവസി വിവരങ്ങൾ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കില്ല അതിനാൽ ഈ ക്ലാസ്സിലെ വിദ്യാർഥികൾ എന്താണ് ചിന്തിക്കുന്നതെന്നതിനെപ്പറ്റി ഞാൻ ആകാംഷയുള്ളവനാണ് പ്രതികരണങ്ങളെക്കുറിച്ചും നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടും എന്നതിനെക്കുറിച്ചും ചിന്തിക്കുക എന്നാൽ ഡേറ്റ എന്താണ് പറയുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ചില ഉപകഥകൾക്കുപകരം അല്ലെങ്കിൽ അഭിമുഖ പഠനം അല്ലെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ എന്നിവയ്ക്ക് പകരം ഡാറ്റയിൽ നിന്ന് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് എല്ലായ്പ്പോഴും രസകരമാണ് നിങ്ങൾക്ക് ചില നല്ല ഉൾക്കാഴ്ചകൾ നല്കാൻ ഇതിനു കഴിയും എന്നാൽ പക്ഷേ പൊതുവായ ഫലങ്ങളുടെ കാര്യത്തിലെപോലെ വളരെയധികം കാര്യങ്ങൾ നല്കുകയുമില്ല ഞാൻ എന്റെ സ്വകാര്യതാ ക്രമീകരണങ്ങൾ വ്യക്തമാക്കിയതിനാൽ എന്റെ ഡാറ്റ സ്വകാര്യത ലംഘനത്തിൽ നിന്ന് സുരക്ഷിതമാണ് എന്ന് അഭിപ്രായമുള്ള 6855 ആളുകളാണുള്ളത് ഇത് 42 ശതമാനമാണ് എന്നാൽ ഇതത്ര ശരിയല്ലെന്ന് നിങ്ങൾ ഇതിനോടകം മനസിലാക്കി കാണുമല്ലോ ഏകദേശം 19 ശതമാനത്തിന് ഇതൊരു ആശങ്കയേയല്ല 23 ശതമാനം ഞാൻ എന്റെ പ്രൈവസി ക്രമീകരണങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും എന്റെ ഡേറ്റയുടെ പ്രൈവസിയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട് പക്ഷേ അത് ആശങ്കയാണ് പക്ഷേ ഞാൻ ഇപ്പോഴും വ്യക്തിഗത വിവരങ്ങൾ പങ്കിടുന്നു ഇത് ഒരു ആശങ്കയാണ് അതിനാൽ ഞാൻ വ്യക്തിഗത ഡാറ്റ പങ്കിടുന്നില്ല അതിനാൽ അത് 6 7 ശതമാനമാണ് 8 ശതമാനം അത് ആശങ്കാജനകമാണ് അതിനാൽ ഇതാണ് വിതരണം പിന്നെ ഞാൻ വിതരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ കാരണം അലൻ വെസ്റ്റണിന്റെ മൌലികവാദികളുടെ പ്രായോഗികവാദികളുടെ പരിഗണനയില്ലാത്ത വിഭാഗങ്ങളുടെ ചെറിയ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാലാണ് ഒരു നിശ്ചിത കാലയളവിൽ ഈ സംഖ്യകൾ എങ്ങനെ മാറുന്നുവെന്ന് കാണാൻ ശരിക്കും രസകരമായിരിക്കും അതിനാൽ അടുത്ത ചോദ്യം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് ഒരു സൌഹൃദ അഭ്യർത്ഥന ലഭിക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിലെ കാര്യം തന്നെ എടുക്കാം ഇനിപ്പറയുന്നവരിൽ ആരെയാണ് നിങ്ങൾ സുഹൃത്തുക്കളായി ചേർക്കുന്നത് എതിർ ലിംഗത്തിലുള്ള വ്യക്തി സ്വന്തം നാട്ടിൽ നിന്നുള്ള ആളുകൾ നല്ല പ്രൊഫൈൽ ചിത്രമുള്ള വ്യക്തി അപരിചിതർ നിങ്ങൾക്ക് പോലും അറിയാത്തതോ തിരിച്ചറിയാത്തതോ ആയ എന്നാൽ മ്യുച്ചൽ ഫ്രണ്ട് ആയിട്ടുള്ളവരോ അതോ വേറെ ആരെയെങ്കിലുമോ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന ഓപ്ഷനുകൾ യഥാർത്ഥത്തിൽ പൂർണ്ണമല്ല അതുകൊണ്ട് ചോദ്യാവലി നോക്കാൻ മടിക്കേണ്ടതില്ല അവിടെ അവതരിപ്പിച്ച എല്ലാ ഓപ്ഷനുകളും നിങ്ങൾ യഥാർത്ഥത്തിൽ കാണും ഇത് ചോദ്യം നമ്പർ 43 ആണ് 6929 പ്രതികരണങ്ങൾ ഈ ചോദ്യത്തിന് ലഭിച്ചിട്ടുണ്ട് വീണ്ടും ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ഞാൻ ഈ ചോദ്യം അനോണിമസ് ആയി ചോദിക്കുകയാണെങ്കിൽ ഡിസ്ട്രിബൂഷൻ വളരെ വിത്യസ്തമായിരിക്കാം അതിനാൽ നമുക്ക് ഇവിടുത്തെ സാഹചര്യം നോക്കാം ഇവിടെ 10 12 ശതമാനം ആളുകൾ ഫ്രണ്ട് റിക്വസ്റ്റ് സ്വീകരിച്ചത് നല്ല പ്രൊഫൈൽ ചിത്രംഉള്ളതുകൊണ്ടാണ് 27 ശതമാനം എതിർ ലിംഗത്തിൽ പെട്ടവരുടെ റിക്വസ്റ്റുകളാണ് സ്വീകരിച്ചത് ആരുടെയെങ്കിലുമൊക്കെ റിക്വസ്റ്റ് സ്വീകരിച്ചർ 2 99 ശതമാനവുമാണ് അതോടൊപ്പം ബാക്കി ശതമാനങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടും ഉണ്ട് എതിർലിംഗത്തിൽപെട്ട ആളുകളെ അക്സെപ്റ്റ് ചെയ്ത ഈ 27 ശതമാനം ആളുകൾ ഉണ്ടെന്ന് ഈ ഡേറ്റ നോക്കിയപ്പോൾ നമ്മൾ കണ്ടു സ്ത്രീകളെ അക്സെപ്റ്റ് ചെയ്ത പുരുഷന്മാരാണോ പുരുഷന്മാരെ അക്സെപ്റ്റ് ചെയ്ത സ്ത്രീകളാണോ ശതമാനത്തിൽ കൂടുതൽ എന്ന് ഈ ഡേറ്റയിൽ നിന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും നിങ്ങളിത് കേൾക്കുന്നുണ്ടെകിൽ ഈ ലെക്ചർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും ഏത് നമ്പർ ആണ് കൂടുതലെന്ന് അതുകൊണ്ട് ഡേറ്റാക്കായുള്ള URL ഡേറ്റ റിപ്പോർട്ട് ക്വസ്റ്റിനെയർ മുതലായവ പ്രയോഗിക്കുമ്പോൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഫോറത്തിൽ ചോദിയ്ക്കാൻ മടിക്കേണ്ടതില്ല സോഷ്യൽ നെറ്റ്വർക്കുകളുമായി പങ്കിടുന്ന വിവരങ്ങളുടെ പ്രൈവസി പ്രശ്നങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച നല്കാൻ ഈ പഠനത്തിന് കഴിയും എന്ന കാര്യം ഓർക്കുക ഫ്രണ്ട് റിക്വസ്റ്റ് സ്വീകരിക്കുന്ന സമയത്ത് ആളുകൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നതെന്നും നിങ്ങൾക്ക് മനസിലാവും ഈ റിപ്പോർട്ട് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് സർവേയുടെ ഡേറ്റയെക്കുറിച്ചും വിഷയത്തെക്കുറിച്ചും കൂടുതൽ അറിവ് ലഭിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനിയുള്ള ലെക്ചറുകളിൽ ഞാൻ കൂടുതൽ പ്രൈവസികളെക്കുറിച്ച് എടുക്കാം ഇപ്പോൾ നമുക്ക് ഈ പ്രൈവസിയെക്കുറിച്ച് വിശദമായി നോക്കാം ലെക്ചറിന്റെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു ഈ കോഴ്സിന്റെ ഭാഗമായ വിദ്യാർഥികൾ ഫോറത്തിലെ വിവിധ തരം പ്രൈവസി പ്രശ്നങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞി ട്ടുണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഫേസ്ബുക് ഫോറം നിങ്ങൾ പ്രശ്നമാണെന്നു ചിന്തിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ പ്രൈവസി പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് ചിന്തിക്കൂ കോഴ്സിൽ പങ്കെടുത്തവർ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം നല്ലപോലെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു വീക് 3 യിൽ ഇത്രയുമേ ഉള്ളു ഈ ആഴ്ച ഞാൻ കണ്ടെന്റുകൾ കുറച്ച് ലളിതമാക്കിയിരുന്നു കാരണം വീക് 1 ലും വീക് 2 ലും എന്റെ ധാരാളം ട്യൂട്ടോറിയലുകൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഈ ആഴ്ച നിങ്ങൾക്ക് കിട്ടിയ ട്യൂട്ടോറിയൽ ട്വിറ്റെർ API യുടെആയിരുന്നു അതിനാൽ നിങ്ങൾക്ക് ട്യൂട്ടോറിയലുകൾ പൂർണമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അടുത്ത ആഴ്ച പ്രൈവസി സ്റ്റാർട്ടിങ്ങുകൾ എന്ന വിഷയത്തിൽ ക്ലാസ് തുടരുന്നതായിരിക്കും